കഴിഞ്ഞ സെഷനിൽ സീ ടിവിയിയുടെ കേസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചു നമ്മൾ ഇതിനകം തന്നെ പി എൽ അക്കൌണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുകയായിരുന്നു കഴിഞ്ഞ തവണയും ഞാൻ പറഞ്ഞിരുന്നു ഒരിക്കൽ കൂടി ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ പ്രിന്റൌട്ട് എടുത്ത് അതുമായി ഇരുന്നു എന്നോടൊപ്പം കേസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക തുടർന്ന് നിങ്ങളുടെ സ്വന്തം നോട്ട്ബുക്കിൽ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ബാലൻസ് ഷീറ്റുമായി താരതമ്യം ചെയ്യുക ഒന്ന് കൂടി ഓര്മപെടുത്തുവാൻ വേണ്ടി നമ്മൾ പി എൽ അക്കൌണ്ടിൽ തുടങ്ങി അതിനെ ശരിയായ ഫോർമാറ്റിൽ ഇട്ടു ഇതായിരുന്നു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൌണ്ടിന്റെ ഉത്തരം ഇതായിരുന്നു ടോട്ടൽ ഓപ്പറേറ്റിംഗ് റെവന്യൂ ടോട്ടൽ റെവന്യൂ അങ്ങനെ മറ്റു പല ചോദ്യങ്ങൾക്കും നാം ഉത്തരം കണ്ടെത്തി ഇന്ന് നമ്മൾ ബാലൻസ് ഷീറ്റ് ആണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ടെറ്റ് ഇക്വിറ്റി റെഷിയോ കണക്കാക്കാൻ നമ്മൾ ശ്രമിക്കും നമ്മൾ മൂന്ന് ഇനങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ആദ്യ ഇനം ക്യാപിറ്റൽ വിഐപി എൻസിഎ എന്ന് അടയാളപ്പെടുത്തി പ്രീഫെറെൻസ് ഷെയർ ക്യാപിറ്റൽ ഇ അതായത് ഇക്വിറ്റി മറ്റ് നോൺകറന്റ് അസറ്റുകൾ എൻസിഎ ദീർഘകാല വായ്പകൾ ഇത് എൻസിഎൽ അല്ലെങ്കിൽ നോൺ കറന്റ് ലിവബിലിറ്റിയാണ് കാരണം ഇത് ദീർഘകാലത്തേതാണ് റ്റാഞ്ചിബിൽ ഫിക്സഡ് അസ്സെറ്റ് എൻ സി എ ട്രേഡ് പേയബിൾസ് എ സീ എൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ മറ്റ് കറൻഡ് ലയബിലിറ്റി അവ സി എൽ വിഭാഗത്തിൽ പെടും ഷോർട്ട് ടെം പ്രൊവിഷൻ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ് ഹ്രസ്വകാല സ്വഭാവമുള്ളതിനാൽ അവ സിഎല്ലിന്റെ ഭാഗമാണ് കോൺടിഞ്ഞജൻറ് ലയബിലിറ്റി അത് ബാലൻസ് ഷീറ്റിന്റെ ഭാഗമാകാൻ പാടില്ല അവ ഒരു അടിക്കുറിപ്പായി മാത്രമേ വരൂ അതിനാൽ നമ്മൾ NA ആയി ഇടും റിസേർവേസ് ആൻഡ് സർപ്ലസ് ഇത് ഇക്വിറ്റിയുടെ ഭാഗമാണ് അതിനാൽ ഇ ഇത് വളരെ തന്ത്രപരമായ ഇനമാണ് അതിനാൽ ഞാൻ അത് മുഴുവനായി കാണിക്കാം കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് കോട്ടഡ് മാർക്കറ്റ് വാല്യൂ അത് എവിടെ കാണിക്കണം യഥാർത്ഥത്തിൽ നിക്ഷേപത്തെ വിപണി മൂല്യത്തിൽ വിലമതിക്കുന്നില്ല അത് കോസ്ററ് ആയി വാല്യൂ ചെയുന്നു പക്ഷേ ഇത് ഒരു അധിക വിവരമായി നൽകിയിരിക്കുന്നു അതിനാൽ ഇത് ബാലൻസ് ഷീറ്റിൽ എവിടെയും വരരുത് അതിനാൽ അത് NA ആയി ഇടും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട തന്ത്രപരമായ ഇനങ്ങൾ ഇവയാണ് കോണ്ടിൻജന്റ് അസ്സെറ്റ്സ് വീണ്ടും NA ഇത് ബാലൻസ് ഷീറ്റിലെ പതിവ് ഇനമല്ല മറ്റ് ഫിക്സഡ് അസ്സെറ്റ്സ് എൻസിഎ നോൺകറന്റ് ഇൻവെസ്റ്റ്മെന്റ് ഡിഫേർഡ് ടാക്സ് അസ്സെറ്റ്സ് പേര് സൂചിപ്പിക്കുന്നതുപോലെ ടാക്സുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ ഡിഫഡ് ആണ് അതിനാൽ നോൺ കറണ്ട് ആണ് അതുകൊണ്ട് എൻ സി എ മറ്റു കറൻറ്റ് അസെറ്റ്സ് സി എ ലോങ്ങ് ടെം പ്രൊവിഷൻസ് നോൺ കറണ്ട് ലയബിലിറ്റി കറണ്ട് ഇൻവെസ്റ്മെന്റ്സ് സി എ അത് പോലെ ഇൻവെന്ററി ട്രേഡ് റീസിവബിൾസ് സി എ ഹ്രസ്വകാല വായ്പകളും അഡ്വാൻസുകളും ഇത് ഹ്രസ്വകാലമാണ് അതിനാൽ കറൻറ് ഒരു അസറ്റാണ് വിദേശ കറൻസിയിൽ ഞാൻ ഈ ഇനം മുഴുവൻ ചെലവിൽ കാണിക്കും ഇത് ഒരു ബാലൻസ് ഷീറ്റ് ഇനമല്ല പക്ഷേ ഇത് ബാലൻസ് ഷീറ്റിലേക്കുള്ള ഒരു അടിക്കുറിപ്പായി നൽകിയിരിക്കുന്നു അതിനാൽ ഇപ്പോൾ ഇത് NA ആയി ഇടാം ഇത് ഒരു സാധാരണ ബാലൻസ് ഷീറ്റ് ഇനമല്ല അതിനാൽ ബാധകമല്ല കയറ്റുമതി ചെയ്ത ചരക്കുകളുടെ FOB മൂല്യം എന്താണ് FOB ഫ്രീ ഓൺ ബോർഡ് ബോർഡ് എന്നാൽ കപ്പൽ എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് കയറ്റുമതിയുടെ മൂല്യം ഇത് ഒരു ബാലൻസ് ഷീറ്റ് ഇനമല്ല ഇത് ഒരു അടിക്കുറിപ്പായിട്ടാണ് വരുന്നത് ലോങ്ങ് ടെം വായ്പകളും അഡ്വാൻസുകളും എൻസിഎ വിദേശ കറൻസിയിൽ ഡിവിഡൻഡ് റെമിറ്റൻസ് അതായത് വിദേശ കറൻസിയിൽ വിദേശത്ത് അടയ്ക്കുന്ന ലാഭവിഹിതം ഇത് പതിവ് ബാലൻസ് ഷീറ്റ് ഇനമല്ല ഇത് ഒരു അടിക്കുറിപ്പ് ഇനമാണ് അതിനാൽ എൻ എ സീ എന്റർടൈൻമെന്റ് ടിവിയുടെ യഥാർത്ഥ പ്രസിദ്ധീകരിച്ച ബാലൻസ് ഷീറ്റിൽ ഉള്ള ഇനങ്ങൾ തന്നെ ആണ് ഇവ നിങ്ങളുടെ സ്വന്തം കമ്പനിയുടെ ബാലൻസ് ഷീറ്റുമായി താരതമ്യം ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇത് ഒരു സൈദ്ധാന്തിക കോഴ്സല്ലെന്ന് ഞാൻ പറഞ്ഞതുപോലെഇത് യഥാർത്ഥത്തിൽ പ്രവർത്തികമാക്കാവുന്ന കാര്യങ്ങൾ ആണ് അടുത്തത് നോൺകറന്റ് ഇൻവെസ്റ്റ്മെന്റ് അൺകോട്ടഡ് ബുക്ക് വാല്യൂ നോൺകറന്റ് നിക്ഷേപങ്ങളെ കോട്ടഡ് അൺകോട്ടഡ് എന്ന് തരംതിരിക്കുന്നു കോട്ടഡ് എന്നാൽ ലിസ്റ്റഡ് ആണ് ലിസ്റ്റുചെയ്തതിന് അവർ വിപണി മൂല്യം നൽകിയിട്ടുണ്ട് അൺകോട്ടഡ്ന് അവർ പുസ്തക മൂല്യം നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് ഒരു അധിക വിവരമാണ് ഇത് ബാലൻസ് ഷീറ്റിന്റെ ഭാഗമല്ല അതിനാൽ എൻഎ മറ്റ് വരുമാനം വീണ്ടും അവ വരുമാനമാണ് അതിനാൽ ബാലൻസ് ഷീറ്റിന്റെ ഭാഗം അല്ല അത് എൻഎ ബോണസ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വീണ്ടും എൻഎ ഇത് ബാലൻസ് ഷീറ്റിന്റെ ഭാഗമല്ല മറിച്ച് ഒരു അടിക്കുറിപ്പായി നൽകണം ഇൻറ്റാഞ്ചിബിൾ ഫിക്സഡ് അസ്സെറ്റ്സ് ഇത് എൻസിഎ ബാലൻസ് ഷീറ്റിന്റെ ഭാഗമാണ് കറൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് അൺകോട്ടഡ് ബുക്ക് വാല്യൂ അധിക വിവരമാണ് എൻഎ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മുഖവില രൂപ 1 അടിസ്ഥാനപരമായി ഇത് ഒരു ഇ ഇതിന് ഒരു ഉപയോഗമുണ്ട് ഷെയറുകളുടെ എണ്ണം കണക്കാക്കാൻ ഇത് ഉപയോഗിക്കാം 96 എന്നത് മൂലധനത്തിന്റെ ആകെ മൂല്യമാണ് ഓരോ ഷെയറും 1 രൂപയാണ് അതായത് ഷെയറുകളുടെ എണ്ണവും 96 കോടി പി എൽ അക്കൌണ്ടിലെ ഓരോ ഷെയറിനുമുള്ള ഇപിഎസ് വരുമാനം കണക്കാക്കുമ്പോൾ ഈ ഷെയറിന്റെ എണ്ണം ആവശ്യമായ ഒരു പ്രധാന വിവരമാണ് ഇതിൽ നിന്ന് നമുക്ക് അത് കണ്ടു പിടിക്കാൻ കഴിയും ഇക്വിറ്റിയുടെ ഭാഗമായതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് E എന്ന് അടയാളപ്പെടുത്താൻ കഴിയും നോൺ കറൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് കോട്ടഡ് മാർക്കറ്റ് വാല്യൂ കോട്ടഡ് എന്നാൽ ലിസ്റ്റഡ് പക്ഷേ ഇത് ഒരു അധിക വിവരമാണ് അതിനാൽ നമുക്ക് NA ഇടാം ഇപ്പോൾ എല്ലാ ഇനങ്ങളും കഴിഞ്ഞു ഈ ഇനങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങൾ എല്ലാ വിവരങ്ങളും ഉപയോഗിച്ച് ശരിയായ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കി ഇനിപ്പറയുന്നവ കണക്കാക്കുക അസൈൻമെന്റിനും പരീക്ഷയ്ക്കും സമാനമായ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അതിനാൽ നിങ്ങൾ ഇത് എന്നോടൊപ്പം പരിഹരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ ഷെയർഹോൾഡേഴ്സ് ഫണ്ട് നോൺകറന്റ്റ് ലിവബിലിറ്റീസ് തുടങ്ങിയവ എല്ലാം കണക്കു കൂട്ടാം അതിനാൽ ഈ ഘട്ടത്തിൽ വീഡിയോ നിർത്താനും പൂർണ്ണ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത് ഈ ഇനങ്ങൾ കണക്കാക്കാനും തുടർന്ന് വീഡിയോയിൽ കാണാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കും ഞാൻ ഉടൻ തന്നെ ഉത്തരം കാണിക്കും നിങ്ങൾ അത് പരിഹരിച്ചതായി ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ആദ്യ ഭാഗം ഷെയർഹോൾഡേഴ്സ് ഫണ്ട് നമ്മൾ ഇ എന്ന് മാർക്ക് ചെയ്തിരുന്നു അതിന്റെ കീഴിൽ രണ്ടു ഇനങ്ങൾ ഉണ്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്രീഫെറെൻസ് ഷെയർ ക്യാപിറ്റൽ അപ്പോൾ മൊത്തം ഷെയർ ക്യാപിറ്റൽ 1622 നിങ്ങൾ തുകകൾ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ സ്ഥിരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതിനാൽ പുതിയ ഇഷ്യൂ അല്ലെങ്കിൽ ബയ് ബാക്ക് ഇല്ല പക്ഷേ പ്രീഫെറെൻസ് ഷെയർ ക്യാപിറ്റൽ കുറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് പ്രീഫെറെൻസ് ഷെയറുകളുടെ വീണ്ടെടുപ്പ് ഉണ്ടായിരിക്കണം അതായത് കമ്പനി ആ മൂലധനം തിരിച്ചടയ്ക്കുകയും ഷെയറുകൾ റദ്ദാക്കുകയും ചെയ്തു നിങ്ങൾക്ക് ഈ വ്യത്യാസം ശരിയായി കാണാൻ കഴിയും ഇനി റിസേർവേസ് ആൻഡ് സർപ്ലസ് ഇത് സമ്പാദിച്ച ലാഭമാണെന്ന് നിങ്ങൾക്കറിയാം അതിനാൽ നിങ്ങൾക്ക് ടോട്ടൽ ഷെയർഹോൾഡേഴ്സ് ഫണ്ട് ലഭിക്കും തുടർന്ന് ദീർഘകാല വായ്പകൾ നിസാരമാണ് ഇത് എന്താണ് കാണിക്കുന്നത് ഇതിനെ സീറോ ഡെറ്റ് കമ്പനി എന്ന് വിളിക്കുന്നു അതായത് കമ്പനിയുടെ ദീർഘകാല കടം ഏകദേശം 0 ആണ് ഇത് പൂർണ്ണമായും ഫണ്ട് ചെയ്യുന്നത് ഷെയർഹോൾഡർമാരുടെ ഫണ്ടുകളാണ് ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് വിളിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അനുപാതമുണ്ട് അത് നമ്മൾ ഉടൻ കണക്കാക്കും കമ്പനിയുടെ സ്ഥിരത മനസിലാക്കാൻ ഈ വിവരങ്ങൾ ഉപയോഗപ്രദമാണ് ഇപ്പോൾ ഇത് ഈ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കടം ഒന്നുമില്ല എന്നതിന്റെ ഒരു നല്ല സൂചനയാണ് വായ്പകൾ ദീർഘകാല പ്രൊവിഷൻസ് ഒരു ചെറിയ തുകയാണ് തുടർന്ന് നിങ്ങൾക്ക് നിലവിലുള്ള ബാധ്യതകൾ ആകെ തുടർന്ന് മൊത്തം മൂലധനവും ബാധ്യതകളും ലഭിക്കും ഇപ്പോൾ നമുക്ക് അസ്സെറ്റ്സ് നോക്കാം റ്റാഞ്ചിബിൾ ഇൻറ്റാഞ്ചിബിൾ അസ്സെറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്സ് മറ്റു അസ്സെറ്റ്സ് ഫിക്സഡ് അസറ്റുകൾ എന്നറിയപ്പെടുന്ന ഒരു സബ്ടോട്ടൽ ഇപ്പോൾ നമ്മൾ കണക്കാക്കുന്നു മറ്റു അസ്സെറ്റ്സ് കാരണം ഫിക്സഡ് അസ്സെറ്റിൽ ഒരു വർദ്ധനവ് കാണാം അടുത്തത് നോൺ കറൻറ് ഇന്വേസ്റ്മെന്റ്സ് ഡിഫേർഡ് ടാക്സ് അസ്സെറ്റ്സ് ലോങ്ങ് ടെം ലോൺ ആൻഡ് അഡ്വാന്സ്സ് എന്നിവ ഗണ്യമായി കുറഞ്ഞു അവർ ആർകെങ്കിലും അഡ്വാൻസ് നല്കിയിരിക്കാം ഒന്നുകിൽ ഈ അഡ്വാൻസ് മുഴുവൻ തിരിച്ച അടച്ചിരിക്കും അത് അവരുടെ നോൺ കറൻറ് അസ്സെറ്റ് ആയി മാറിയിരിക്കും പൊരുത്തപ്പെടുന്ന വർദ്ധനവ് മറ്റു നോൺ കറൻറ് അസ്സെറ്റിൽ ഉണ്ടെന്നു നിങ്ങൾക് കാണാം 19 പ്ലസ് 402 ഏറെക്കുറെ ഈ തുക ആണ് നിങ്ങൾക് കിട്ടുക അപ്പോൾ അഡ്വാൻസ് ആയി നൽകിയിരുന്ന തുക ആണ് നോൺ കറന്റ് അസ്സെറ്റ് ആയി പരിവർത്തനം ചെയ്തിരിക്കുന്നത് ടോട്ടൽ നോൺ കറൻറ് അസ്സെറ്റിൽ ഫിക്സഡ് അസ്സെറ്റും മറ്റു നോൺ കറൻറ് അസ്സെറ്റും കൂടുന്നു പിന്നെ കറൻറ് അസ്സെറ്റ് കറൻറ് ഇന്വേസ്റ്മെന്റിൽ ഒരു കയറ്റം കാണാം കമ്പനി 1100 കോടിയുടെ പുതിയ ഷോർട് ടെം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട് ഷോർട് ടെം ലോൺ ആൻഡ് അഡ്വാന്സ്സ് ഇടിഞ്ഞിട്ടുണ്ട് ടോട്ടൽ കറന്റ് അസ്സെറ്റ്സ് കിട്ടി അപ്പോൾ ടോട്ടൽ അസ്സെറ്സ് കണ്ടു പിടിക്കാൻ സി എ എൻ സി എ എന്നിവ കൂട്ടിയാൽ മതി ഈ ഘട്ടത്തിൽ കോണ്ടിൻജന്റ് ലിവബിലിറ്റി അസ്സെറ്റ്സിന്റെ താഴെ കൊടുത്തിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക് മറ്റു വിവരങ്ങൾ ലഭിക്കുന്നു കോണ്ടിൻജന്റ് ലയബിലിറ്റി ഇമ്പോർട്ടിന്റെ സി ഐ എഫ് വാല്യൂ ഫോറിൻ എക്സ്ചേഞ്ച് എർണിങ് ഫോറിൻ എക്സ്ചേഞ്ച്ലുള്ള റെമിറ്റൻസ് ഈർണിങ്സ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് ബോണസ് വിവരങ്ങൾ ഇപ്പോൾ ബോണസിന്റെ വിവരങ്ങൾ 47 97 ആയ ക്യാപിറ്റലിന്റെ പകുതിയോളം അതായത് 47 വരുന്നത് ബോണസ്സില് നിന്ന് ആണ് ഇത് കാണിക്കുന്നത് കമ്പനി ക്രമാനുഗതമായി ലാഭമുണ്ടാക്കുന്നുവെന്നും അവർ ഷെയർ ഹോൾഡേഴ്സിന് ധാരാളം ബോണസുകൾ നൽകി കറൻറ് നോൺ കറൻറ് ഇന്വേസ്റ്മെന്റുകൾ മാർക്കറ്റ് വാല്യൂ ബുക്ക് വാല്യൂ തുടങ്ങിയ വിവരങ്ങൾ യഥാക്രമം നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ കേസ് നമ്മൾ ഏറെക്കുറെ മുഴുവനായും ചർച്ച ചെയ്തു നിങ്ങളുടെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് സീ ടി വിയുടെ ബാലൻസ് ഷീറ്റുമായി വീണ്ടും താരതമ്യം ചെയ്യാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കും സീ ടിവി ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു സേവന കമ്പനിയാണ് നിങ്ങളുടേത് ഒരു നിർമ്മാണ കമ്പനിയാണ് എങ്കിൽ ഈ താരതമ്യം രസകരമായിരിക്കും നിങ്ങൾക്ക് ധാരാളം ഉൾക്കാഴ്ചകൾ നേടാൻ സാധിക്കും വിവിധ കമ്പനികളെക്കുറിച്ചുള്ള ഡാറ്റ നേടാനും വിവിധ തരം ബാലൻസ് ഷീറ്റുകൾ തയ്യാറാക്കാനും ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് വിവിധ പദങ്ങൾ എളുപ്പത്തിൽ മനസിലാക്കാനും ബാലൻസ് ഷീറ്റ് വിശകലനം ചെയ്യാനും സഹായകമാകും അതിനാൽ ഇത് ഇവിടെ നിർത്താം